ഹലോ സുരക്ഷിത സിസ്റ്റം എഞ്ചിനീയറിംഗിനായുള്ള കോഴ്സിലെ ഈ ഡെമോൺസ്ട്രേഷനിലേക്ക് സ്വാഗതം ഈ ഡെമോൺസ്ട്രേഷനിൽ നമ്മൾ ROP ആക്രമണത്തെക്കുറിച്ച് നോക്കും ഇപ്പോൾ ROP ആക്രമണങ്ങൾ ചെയ്യുന്നത് വളരെ ബുദ്ധിമുട്ടാണ് അതിനാൽ ഈ കോഴ്സ് പഠിപ്പിക്കുമ്പോൾ ചില വിദ്യാർത്ഥികൾ സമർപ്പിച്ച ഒരു പ്രത്യേക അസൈൻമെന്റിനെക്കുറിച്ച് നമ്മൾ ചുരുക്കമായി മനസ്സിലാക്കും ഈ അസൈൻമെന്റ് പ്രധാനമായും ROP എന്ന ഡയറക്ടറിയിലെ ഒരു ഫയലുമായി പ്രവർത്തിക്കുന്നു നിങ്ങൾക്ക് ഈ ഫയൽ ഡൌൺലോഡ് ചെയ്യാനും കഴിയും ഈ കോഴ്സിനൊപ്പം വരുന്ന VMന്റെ ഭാഗമാണിത് VMൽ nptel codesmodule4ROP ഡയറക്ടറിയിൽ നിങ്ങൾക്ക് ആവശ്യമായ ഈ കോഡ് കണ്ടെത്താനാകും attacked ആയ ഫയൽ TUT2 C ട്യൂട്ടോറിയൽ 2 ആയിരുന്നു ഈ പ്രോഗ്രാമിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് അതിൽ ഒരു main functionഉം ഒരു concatenate first chars ഫംഗ്ഷനുമുണ്ടായിരുന്നു ഈ കോഡുകൾ എഴുതിയ വിദ്യാർത്ഥികൾക്ക് തീർച്ചയായും ക്രെഡിറ്റ് നൽകണം അവരുടെ റോൾ നമ്പറുകൾ ഇവിടെയുണ്ട് ഈ കോഡിന്റെ ശരിയായ പ്രവർത്തനം ഇനിപ്പറയുന്നതാണ് ഇത് എക്സിക്യൂട്ടബിൾ tut2 ആണെന്ന് നിങ്ങൾ കാണുന്നു ഇതുപോലുള്ള പത്ത് പദങ്ങൾ ഇൻപുട്ട് ചെയ്യുന്നു ഒപ്പം എല്ലാ ഇൻപുട്ട് പദങ്ങളുടെയും ആദ്യ ക്യാരക്ടർ ആണ് ഔട്ട്പുട്ട് അതിനാൽ ABCD മുതൽ J വരെയുള്ള ആദ്യ ക്യാരക്ടറുകൾ സ്ക്രീനിൽ പ്രിന്റുചെയ്തതായി നിങ്ങൾ ഇവിടെ കാണുന്നു ഈ പ്രോഗ്രാമിൽ ഒരു ദുർബലതയുണ്ട് ഈ concatenate first chars ഫംഗ്ഷനിൽ ആണ് vulnerablity ഉള്ളത് നമ്മൾ ദുർബലത എന്താണെന്നതിലേക്ക് പോകില്ല പക്ഷേ ഇത് ഒരു അസൈൻമെൻറായി വിശ്വസിക്കുകയും ഈ ഫംഗ്ഷനിൽ ഈ ദുർബലതകൾ കണ്ടെത്താൻ ശ്രമിക്കുന്ന ഏതൊരു കാഴ്ചക്കാരെയും challenge ചെയ്യുന്നു ആ ദുർബലത ഉപയോഗിക്കുന്ന ഒരു ROP ആക്രമണം നിർമ്മിക്കാൻ നമ്മൾ ശ്രമിക്കും ROP ആക്രമണത്തിന്റെ ലക്ഷ്യം എങ്ങനെയെങ്കിലും 10 compute ചെയ്യുക എന്നതാണ് ROP ഗാഡ്ജെറ്റുകൾ ഉപയോഗിച്ച് 1 മുതൽ 10 വരെയുള്ള സംഖ്യകളുടെ product കാണുക അ എന്നതാണ് ആണ് ഇത് ചെയ്യുന്നത് കൂടാതെ ഈ global വേരിയബിൾ GLB യുടെ മൂല്യം പൂരിപ്പിക്കുകയും ചെയ്യുന്നു ഈ GLB മൂല്യം എവിടെയെങ്കിലും പ്രിന്റുചെയ്യുകയും ഈ ഫയൽ നോക്കുമ്പോൾ ഈ printf ഒഴികെ മറ്റെവിടെയും GLB ഉപയോഗിക്കുന്നില്ലെന്നും നമ്മൾ 10 ഈ programൽ മറ്റെവിടെയെങ്കിലും compute ചെയ്യുന്നില്ലെന്നും ശ്രദ്ധിക്കുക ROP attackന് ആദ്യം ചെയ്യേണ്ടത് പ്രോഗ്രാമിൽ നിലവിലുള്ള ഗാഡ്ജെറ്റുകൾ തിരിച്ചറിയുക എന്നതാണ് ROPGadget master എന്ന ഡയറക്ടറിയിൽ ഉള്ള ഈ ഉപകരണം ഉപയോഗിച്ച് ഗാഡ്ജെറ്റുകൾ കണ്ടെത്താൻ കഴിയും ഈ ROP ROPGadget masterലേക്ക് പോയി python ROPgadget py -binary ROPtesttut2 എന്ന ഉപകരണം ഉപയോഗിക്കുക ഇൻപുട്ടായി ഒരു binay ആണെന്ന് വ്യക്തമാക്കി നാം evaluate ചെയ്യേണ്ട exeutable ഫയലിംൻറെ path നൽകുക ഈ ഗാഡ്ജെറ്റ് ഉപകരണം എന്തുചെയ്യും എന്ന് നോക്കാം ROP ഗാഡ്ജെറ്റ് tool ട്യൂട്ടോറിയൽ 2 എന്ന executable fileൽ കണ്ടെത്താൻ കഴിയുന്ന എല്ലാ ഗാഡ്ജെറ്റുകളും തിരിച്ചറിയുന്നു അതിനാൽ നമുക്ക് ഈ ഫയലിലേക്ക് ഔട്ട്പുട്ട് റീഡയറക്ടുചെയ്യാം ഫയൽ e1ൽ അപ്രകാരം കണ്ടെത്തിയ ചില ഗാഡ്ജെറ്റുകൾ ഉണ്ട് ഈ ഓരോ ഗാഡ്ജെറ്റിനും കുറച്ച് നിർദ്ദേശങ്ങളുണ്ടെന്നും അവസാനം ഒരു റിട്ടേൺ അല്ലെങ്കിൽ റിട്ടേൺ എഫ് അല്ലെങ്കിൽ കോൾ നിർദ്ദേശമുണ്ടെന്നും ശ്രദ്ധിക്കുക ഇവിടെയുള്ള ഈ address ഗാഡ്ജെറ്റിന്റെ വിലാസമാണ് നിങ്ങൾ കാണുന്നതു പോലെ എക്സിക്യൂട്ടബിൾ tut2 ൽ 13276 ഗാഡ്ജെറ്റുകൾ കണ്ടെത്തിയിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ എഴുതാൻ ആഗ്രഹിക്കുന്ന പേലോഡിലേക്ക് മടങ്ങി വരുന്നു നമ്മൾ ഈ ഗാഡ്ജെറ്റുകൾ ഉപയോഗിച്ച് 10 കണക്കുകൂട്ടാൻ ആഗ്രഹിക്കുന്നു പ്രധാനമായും നമ്മൾ ചെയ്യേണ്ടത് ഈ 13276 gadgetsൽ നിന്ന് ഒരു ഗാഡ്ജെറ്റ് തിരഞ്ഞെടുത്ത് അവയെ സ്റ്റാക്കിൽ ക്രമീകരിക്കുക ശേഷം 10 compute ചെയ്യുക ഈ ഗാഡ്ജെറ്റുകൾ നമ്മൾ എങ്ങനെ choose ചെയ്യുന്നു എന്നതിനെക്കുറിച്ചുള്ള വിശദാംശങ്ങളിലേക്ക് നമ്മൾ പോകില്ല പക്ഷേ ഈ അറ്റാക്കിനെ കുറിച്ചുള്ള ഒരു റിപ്പോർട്ട് നമ്മൾ കാണും ഇവിടെ നമ്മൾ കാണുന്നത് സ്റ്റാക്കിന്റെ റിപ്പോർട്ട് പ്രത്യേകിച്ചും concatenate first chars ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഉള്ളതാണ് ഈ ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഒരു സ്റ്റാക്ക് ഫ്രെയിം സജീവമാണെന്നും ഈ ഫ്രെയിം ഇതുപോലെയാണെന്നും നമുക്കറിയാം അതിൽ 4 ബൈറ്റുകൾ ഉള്ള റിട്ടേൺ വിലാസം സംഭരിച്ചിരിക്കുന്നു ഇവിടെ main കറസ്പോണ്ടിംഗ് ആയിട്ടുള്ള ഒരു ഫ്രെയിം പോയിന്റർ മറ്റ് ചില ഡാറ്റകളും ലോക്കലുകളും ഉണ്ട് അതിനാൽ നമ്മുടെ നിർദ്ദിഷ്ട Compilation ആയ സ്റ്റാക്കിന്റെ സ്ഥാനങ്ങളും സ്റ്റാക്ക് ഫ്രെയിമും ഇവിടെയുണ്ട് എന്നാൽ നിങ്ങൾ അത് റൺ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഈ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോഴോ ഈ വിലാസങ്ങൾക്ക് നിങ്ങൾക്ക് മറ്റൊരു മൂല്യം ലഭിച്ചേക്കാം എന്നിരുന്നാലും സ്റ്റാക്കിന്റെ ഘടനയും സ്റ്റാക്കിലെ വിവിധ ഡാറ്റയുടെ ആപേക്ഷികതയും സമാനമായിരിക്കും ഒരു ROP ആക്രമണം യഥാർത്ഥത്തിൽ ചെയ്യുന്നത് ഇത് ഈ return to main മാറ്റി ഗാഡ്ജെറ്റുകൾ പകരം വച്ച് fill ചെയ്യാൻ തുടങ്ങുന്നു എന്നതാണ് അതിനാൽ ഈ ഘട്ടത്തിൽ സ്ഥാപിച്ചിരിക്കുന്ന ആദ്യ ഗാഡ്ജെറ്റുകളിൽ നിന്നും ആരംഭിക്കുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ മുകളിലേക്ക് പോകുന്ന ഗാഡ്ജെറ്റുകൾ ഉണ്ടായിരിക്കും അതായത് ഈ ഓരോ ഗാഡ്ജെറ്റുകൾക്കും 10 കണക്കുകൂട്ടുന്നതിൽ ചില ഓപ്പറേഷൻസ് ഉണ്ട് tutorial 2 ൽ കാണപ്പെടുന്ന 13000ത്തോളം ഗാഡ്ജെറ്റുകളുടെ ഇടത്തിൽ നിന്ന് തിരഞ്ഞെടുത്ത 14 ഗാഡ്ജെറ്റുകൾ നമ്മൾ ഉപയോഗിക്കുന്നു ഈ gadgetsൻറെ പ്രവർത്തനത്തിൽ പല വ്യത്യാസങ്ങളും ഉണ്ട് ഗാഡ്ജെറ്റ് നമ്പർ 6 കൂടുതൽ സങ്കീർണ്ണമായ ഒരു ഒരു gadget ആണ് ഇതിൽ integer multpipication ആണ് ആണ് നടക്കുന്നത് ECX register point ചെയ്ത ഉള്ളടക്കങ്ങൾ ECX register contents കൊണ്ട് ഗുണിക്കുന്നു ഈ ഓരോ ഗാഡ്ജെറ്റുകളുടെയും വിവരണം ഇവിടെയുണ്ട് അതിനാൽ 10 കണക്കുകൂട്ടാൻ നമ്മൾ ഗാഡ്ജെറ്റുകൾ തിരഞ്ഞെടുത്ത് സ്റ്റാക്കിൽ സ്ഥാപിക്കുന്ന പ്രവർത്തനങ്ങളുടെ ഒരു ശ്രേണി നിർമ്മിക്കുന്നു അതായത് ഈ ഗാഡ്ജെറ്റുകളെല്ലാം അതിന്റെ എക്സിക്യൂഷൻ പൂർത്തിയാക്കിയ ശേഷം നമുക്ക് 10 compute ചെയ്തു കിട്ടും എല്ലാ ഗാഡ്ജെറ്റുകളും place ചെയ്ത സ്റ്റാക്ക് ഇതുപോലെയാണ് കാണപ്പെടുന്നത് ഇത് ഈ സ്ഥാനത്ത് സ്ഥാപിച്ചിരിക്കുന്ന ഗാഡ്ജെറ്റ് നമ്പർ 1 ൽ നിന്ന് ആരംഭിക്കുന്നു ഈ locationൽ ആദ്യം നമ്മൾ കണ്ട mainലേക്ക് ഉള്ള return ഉണ്ട് ഇപ്പോൾ നമ്മൾ ഒരു ബഫർ overflow ചെയ്യുകയും main functionലേക്ക് ഉള്ള returnന് പകരം ഈ ഗാഡ്ജെറ്റുകളുടെ sequence മാറ്റിസ്ഥാപിക്കുകയും ചെയ്യുന്നു അതിനാൽ എക്സിക്യൂഷനുകൾക്കിടയിൽ ഒന്നാമതായി ഗാഡ്ജെറ്റ് 1 എക്സിക്യൂട്ട് ചെയ്യുന്നു ഗാഡ്ജെറ്റ് 1 ലെ return ഗാഡ്ജെറ്റ് 2ൻറെ address സ്റ്റാക്കിൽ നിന്ന് തിരഞ്ഞെടുത്ത് എക്സിക്യൂട്ട് ചെയ്യും തുടർന്ന് ഗാഡ്ജെറ്റ് 3 ഗാഡ്ജെറ്റ് 4 തുടങ്ങിയവ എക്സിക്യൂട്ട് ചെയ്യുന്നു ഗാഡ്ജെറ്റുകൾ sequence ആയി ക്രമീകരിച്ചിരിക്കുന്നത് 10 compute ചെയ്യുന്നതിനാണ് കൂടുതൽ വ്യക്തമായി പറഞ്ഞാൽ ഉദാഹരണത്തിന് ഈ സീക്വൻസുകൾ ഓരോന്നും ഈ സ്ഥാനത്ത് നമ്മൾ 3 compute ചെയ്തിട്ട് അതിൻറെ ഫലം ഗ്ലോബൽ വേരിയബിൾ GLBയിൽ store ചെയ്യും ഈ സ്ഥാനത്തുള്ള GA9 ഗാഡ്ജെറ്റുകൾ മുതൽ ഗാഡ്ജെറ്റ് GA8 വരെ നമ്മൾ 4 കണക്കുകൂട്ടും ഇത് mov EX to 4 എന്ന instruction കാരണമാണ് തുടർന്ന് GLBയുടെ ഉള്ളടക്കങ്ങൾ നമ്മൾ 4നെ ഗുണിക്കുന്നു കുറച്ച് ഗാഡ്ജെറ്റുകൾക്ക് ശേഷം നമ്മൾ 4 GLB യിൽ സ്റ്റോർ ചെയ്യും ഇപ്പോൾ ഇത് 5 6 എന്നിങ്ങനെയുള്ള ഒരു ശ്രേണിയിൽ നിരവധി തവണ 10 കിട്ടുന്നത് വരെ ആവർത്തിക്കുന്നു ഇത് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഒരാൾ അഭിമുഖീകരിച്ചേക്കാവുന്ന ഒരു തടസ്സം സ്റ്റാക്ക് സെഗ്മെന്റ് overflow ആണ് കാരണം ഇത് main ഫംഗ്ഷന് ശേഷം ഉടൻ തന്നെ Invoke ചെയ്യുന്ന രണ്ടാമത്തെ ഫംഗ്ഷനിൽ നിന്നുള്ളതാണ് അതിനാൽ സ്റ്റാക്കിന്റെ ഉള്ളടക്കം താരതമ്യേന ചെറുതാണ് നമ്മൾ ഈ സ്റ്റാക്കിലേക്ക് ഗാഡ്ജറ്റുകൾ ചേർക്കുന്നത് തുടരുകയാണെങ്കിൽ സ്റ്റാക്ക് വളരെ എളുപ്പത്തിൽ overflow ആയേക്കാം അതിനാൽ ഗാഡ്ജെറ്റുകൾ തിരഞ്ഞെടുക്കുന്നതിനും ആവശ്യമായ പേലോഡ് എക്സിക്യൂട്ട് ചെയ്യുന്ന രീതിയിൽ ഗാഡ്ജെറ്റുകൾ സ്ഥാപിക്കുന്നതും തികച്ചും ശ്രമകരമായ ഒരു മാർഗ്ഗമാണ ഈ കാര്യം എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് നമുക്ക് നോക്കാം ഇതിന്റെ ഇന്റേണലുകളെക്കുറിച്ചുള്ള വിശദാംശങ്ങളിലേക്ക് നമ്മൾ പോകില്ല കാരണം ഇത് വളരെ സങ്കീർണ്ണവും അടിസ്ഥാനപരമായി ഈ കോഴ്സിൻറെ പരിധിക്ക് പുറത്തായ കാര്യവുമാണ് ഗാഡ്ജെറ്റുകൾ സ്ഥാപിച്ചിരിക്കുന്ന input vm എന്ന ഫയലിലുളള ഇൻപുട്ട് ഉപയോഗിച്ച് ഇത് റൺ ചെയ്യുക ഇത് ഒരു ബൈനറി ഫയലാണ് നമുക്ക് ഇത് od കമാൻഡ് ഉപയോഗിച്ച് തുറക്കാം ട്യൂട്ടോറിയൽ പ്രോഗ്രാമിലേക്ക് യഥാർത്ഥത്തിൽ കൈ മാറിയ ഇൻപുട്ടാണിത് ഈ ROP ഗാഡ്ജെറ്റുകൾ എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് നോക്കാം അതിനാൽ ഒരു payload vm py ഉണ്ട് ഈ പ്രത്യേക കോഡ് ഗാഡ്ജെറ്റുകൾ ക്രമീകരിക്കുകയും Y സ്ട്രിംഗിൽ സ്ഥാപിച്ചിരിക്കുന്ന ആവശ്യമായ ഇൻപുട്ട് രൂപപ്പെടുത്തുകയും ചെയ്യുന്നു ഒടുവിൽ Y അച്ചടിക്കുകയും ചെയ്യുന്നു ഗാഡ്ജെറ്റുകൾ ക്രമീകരിച്ചിരിക്കുന്ന input vm ഫയൽ സൃഷ്ടിക്കുന്ന പ്രത്യേക പൈത്തൺ സ്ക്രിപ്റ്റ് ഇതാണ് നമ്മൾ ഈ tut2 റൺ ചെയ്യുന്നു ഇതിന് ക്ഷുദ്രകരമായ ഇൻപുട്ട് നൽകുക അത് input vm ആണ് അപ്പോൾ GLBയുടെ മൂല്യം 3628800 ആണെന്ന് നമ്മൾ കാണുന്നു ന്റെ മൂല്യമാണ് ഈ കോഡിലെ ഒരു പ്രശ്നം 10 പ്രിൻറ് ചെയ്തതിനുശേഷം ഒരു സെഗ്മെന്റേഷൻ ഫോൾട്ട് ഉണ്ടാകും എന്നതാണ് പ്രോഗ്രാം സുരക്ഷിതമായ രീതിയിൽ അവസാനിപ്പിക്കാത്തതിനാലാണിത് സംഭവിക്കുന്നത് ROP ഗാഡ്ജെറ്റ് മനോഹരമായ രീതിയിൽ ടെർമിനേറ്റ് ചെയ്യുന്ന രീതിയിൽ ഈ പ്രത്യേക കോഡ് modify ചെയ്യുക എന്നത് ഈ കോഴ്സിലെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള വെല്ലുവിളികളിലൊന്നാണ്